എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിലെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പത്തൊമ്പതാമത്തെ ലക്ച്ചറാണ് ഇന്ന് നമ്മൾ രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷണിലെ മാക്സിമയേയും മിനിമയേയും കുറിച്ചുള്ള ചർച്ച തുടരുന്നതാണ് മാത്രമല്ല മുമ്പത്തെ ലക്ച്ചറുകളിൽ ഇതിനകം ചർച്ച ചെയ്ത ആശയം നമ്മൾ ചില സാധാരണയായിട്ടുള്ള പ്രോബ്ലംസുകളിൽ പ്രയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യും ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ ലോക്കൽ എക്സ്ട്രീമ കണ്ടെത്തുകയും അത് മതിയായതും ആവശ്യമായതുമായ വ്യവസ്ഥയാണെന്നും കണ്ടെത്തിയിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും ഈ സമവാക്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോയന്റുകളും കണ്ടെത്തണം അതിനാൽ x ന് അനുസൃതമായിട്ടുള്ള f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യമാക്കുകയും y ക്ക് അനുസൃതമായിട്ടുള്ള f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യമാക്കുകയും പിന്നീട് ഈ രണ്ട് സമവാക്യങ്ങൾ സോൾവ് ചെയ്ത് ഈ സമവാക്യങ്ങൾ പാലിക്കുന്ന എല്ലാ പോയന്റുകളും കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ അതെല്ലാമായിരിക്കും ക്രിട്ടിക്കൽ പോയന്റുകൾ നമ്മൾ ഓരോ ക്രിട്ടിക്കൽ പോയന്റിലും x ന് അനുസൃതമായി രണ്ടാമത്തെ ഡെറിവേറ്റീവിൽ ഉപയോഗിച്ചിട്ടുള്ള r നമ്മൾ ഓരോ ക്രിട്ടിക്കൽ പോയന്റിലും വിലയിരുത്തും പിന്നീട് ഇവിടെയുള്ളത് s ഉം സമ്മിശ്ര ഡെറിവേറ്റീവുമാണ് ഈ ഫംഗ്ഷൻ f ന്റെ zxy ഡെറിവേറ്റീവ് ആണ് t എന്നത് ഇനി തിരിച്ചറിയുന്നതിനു വേണ്ടി നമ്മൾ rt s2 പോസിറ്റീവും r നെഗറ്റിവുമാണെങ്കിൽ അത് മാക്സിമത്തിന്റെ പോയന്റാണെന്നും അത് പോലെ rt s2 പോസിറ്റീവും r പോസിറ്റീവുമാണെങ്കിൽ എങ്കിലത് ഒരു മിനിമത്തിന്റെ പോയന്റുമാണ് ഇനി rt s2 നെഗറ്റീവാണെങ്കിൽ അതൊരു സാഡിൽ പോയന്റ് ആയി മാറും ഇനി rt s2 പൂജ്യമാണെങ്കിൽ രണ്ടാം ഡെറിവേറ്റീവുകളുടെ ടെസ്റ്റ് പരാജയപ്പെടുകയും നമ്മൾ മറ്റു പല വഴികളും ഉപയോഗിച്ച് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് fxy4x2y2 e എന്ന ഫംഗ്ഷന്റെ ലോക്കൽ എക്സ്ട്രീമയാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് fx കണക്കു കൂട്ടണം അതിനാൽ ഈ fx നെ നമ്മൾ y കോൺസ്റ്റന്റാക്കിയെടുത്ത് x ന് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ പദം ലഭിക്കും അത് നമുക്ക് അതുപോലെ നിലനിർത്താം അതൊരു പ്രൊഡക്ട് റൂൾ ആണ് എന്നിട്ട് ഇത് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യും അപ്പോൾ e എന്നും പിന്നെ ഈ x2 4y2 എന്നത് x ന് അനുസൃതമായിട്ടുള്ള 2x ആയിരിക്കും അപ്പോൾ ഇത് ഇവിടെ 8x ആണ് ഈ ആദ്യത്തെ പദത്തിന്റെ ഡെറിവേറ്റീവ് 8x ആണ് പിന്നെയുള്ളത് e പിന്നെ ഈ പദത്തിൽ നിന്ന് ഈ 2x നമുക്ക് പൊതുവായിട്ടെടുക്കാം പിന്നെ e ഉണ്ട് ആദ്യ പദത്തിൽ നിന്നും നമുക്ക് 4x2 y2 ലഭിക്കും അത് മൈനസ് ചിഹ്നത്തോടുകൂടി ആയിരിക്കും കാരണം അവിടെ മൈനസ് ഉണ്ടായിരുന്നു ഇവിടെനിന്നും നമ്മൾ ഇതിനകം 2x എടുത്തിട്ടുണ്ട് പിന്നെ ഈ എക്സ്പോണേന്ഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെറും 4 ലഭിക്കും അപ്പോൾ ഇവിടെ എഴുതിയത് പോലെ ഫംഗ്ഷന്റെ x ന് അനുസൃതമായിട്ടുള്ള ആദ്യത്തെ ഡെറിവേറ്റീവാണത് അപ്പോൾ 2x ഉം ഈ എക്സ്പോണേന്ഷ്യൽ ഫംഗ്ഷൻ 4 4x2 y2 ഉം fx xy2x e സമാനമായി നമുക്ക് y ക്ക് അനുസൃതമായിട്ടുള്ള ഏക വർഗ്ഗ ഡെറിവേറ്റീവ് ലഭിക്കും അപ്പോൾ നമ്മൾ ഇവിടെ y ക്ക് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യും വീണ്ടും ഇവിടെ പ്രൊഡക്ട് റൂൾ പ്രായോഗികമാണ് അപ്പോൾ നമുക്ക് ഈ 2y ലഭിക്കും ഇവിടെ അതേ എക്സ്പോണേന്ഷ്യൽ ഫംഗ്ഷനും പിന്നെ ഈ 1 16x2 4y2 എന്ന അധിക പദവും ഈ രണ്ട് സമവാക്യങ്ങളും സോൾവ് ചെയ്തു കൊണ്ട് നമുക്ക് ക്രിട്ടിക്കൽ പോയന്റുകൾ ലഭിക്കും അപ്പോൾ നമ്മൾ ഈ സമവാക്യങ്ങൾ പൂജ്യമാക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് ആദ്യത്തെ സമവാക്യത്തിൽ നിന്നും ക്രിട്ടിക്കൽ പോയന്റുകൾ ലഭിക്കും കാരണം എക്സ്പോണേന്ഷ്യൽ പൂജ്യമാവാൻ പാടില്ല അപ്പോൾ x പൂജ്യം ആയിരിക്കണം അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൽ ഉള്ള പദം പൂജ്യം ആയിരിക്കണം അപ്പോൾ x പൂജ്യം ആണെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ x പൂജ്യമാണെങ്കിൽ ഈ x ലൂടെയുള്ള ഏത് പോയന്റിലും fx പൂജ്യത്തിന് തുല്യമായിരിക്കും ഏതൊരു y ലും ഇത് പൂജ്യമായിരിക്കും അപ്പോൾ നമുക്കിവിടെ x0 എന്നുണ്ട് അത് നമുക്ക് ഈ fx ലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ x പൂജ്യമാകുമ്പോൾ ഈ പദം പൂജ്യമാക്കുന്നതിനു വേണ്ടി നമുക്ക് ഈ രണ്ടു സാധ്യതകളാണ് ലഭിക്കുന്നത് ഒന്നുകിൽ y പൂജ്യമായിരിക്കും ഈ കേസിലും ഈ പദം പൂജ്യമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ x പൂജ്യമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ 1 16x2 4y2 എന്നത് പൂജ്യമാണെന്ന് ലഭിക്കും കാരണം x ഇവിടെ പൂജ്യമായിട്ടാണ് നൽകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് 1 4 y2 പൂജ്യമാണെന്നതുണ്ട് ഇവിടെ നിന്ന് നമുക്ക് y±12 എന്നത് ലഭിക്കും അപ്പോൾ ഈ കേസിൽ നമ്മൾ x0 ആക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സമവാക്യംപൂജ്യം ആക്കുന്നതിനു വേണ്ടി നമുക്ക് രണ്ട് സാധ്യതകൾ ഉണ്ട് ഒന്നുകിൽ y0 ആവുമ്പോൾ നമ്മൾ ഇത് പൂജ്യമാക്കുന്നു അല്ലെങ്കിൽ x0 എന്നതിനോടൊപ്പം y±12 എടുക്കുകയാണെങ്കിൽ അതും പൂജ്യമാവുന്നതാണ് അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് വാസ്തവത്തിൽ 3 പോയന്റുകൾ ലഭിക്കുന്നുണ്ട് അതിൽ 00 എന്നതാണ് ഒരു പോയന്റ് പിന്നെയുള്ളത് 012 വും 0 12 വും ആണ് അപ്പോൾ സാധ്യതകൾ വെച്ച് fx ഉം fy ഉം പൂജ്യം ആക്കുവാൻ നമുക്ക് 3 പോയന്റുകളുണ്ട് ഇനി വേറെ ഒന്നുണ്ട് രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നും y പൂജ്യം ആണെങ്കിൽ ഈ ഡെറിവേറ്റീവ് പൂജ്യമാകും ആദ്യത്തേതിൽ നിന്ന് നമ്മൾ y0 ആക്കുകയാണെങ്കിൽ നമുക്ക് 4 4 x20 എന്ന് കിട്ടും അപ്പോൾ ഇവിടെ x±1 എന്ന് ലഭിക്കും അപ്പോൾ y0 ഉപയോഗിച്ചുള്ള മറ്റു പോയന്റുകൾ ഇവയാണ് അപ്പോൾ ഇവിടെ നമുക്ക് 10യും 10യും ഉണ്ട് അപ്പോൾ മറ്റൊരു പോയന്റായിട്ടുള്ളത് 10യും മറ്റൊന്ന് 10യും ആയിരിക്കും ഇനി നമ്മൾ ഈ പദവും ഈയൊരു പദവും പൂജ്യമാക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് എന്താണ് ലഭിക്കുക നമുക്ക് കിട്ടുന്നത് 44x2y2 രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 16x24y2 ആണ് അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 4 പൊതുവായിട്ടെടുത്താൽ ഇവിടെ വലതുവശത്ത് 14 ഉം ഇവിടെ 4 x2y2 ഉം ആയിരിക്കും അപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്നും നമുക്ക് ഉത്തരങ്ങളൊന്നും ലഭിക്കില്ല കാരണം ഒന്നാമത്തെ സമവാക്യം 4 x2y20 രണ്ടാമത്തേത് 4 x2y2¼ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങളൊന്നും ലഭിക്കില്ല നമുക്ക് കിട്ടിയ പോയന്റുകൾ 012 0 12 10 10 എന്നിവയായിരുന്നു ആ പോയന്റുകളിലെല്ലാം നമുക്ക് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് പോലെ നമുക്ക് ഈ 5 ക്രിട്ടിക്കൽ പോയന്റുകൾ ഉണ്ട് അല്ലെങ്കിൽ രണ്ടു ഡെറിവേറ്റീവുകളും ഇല്ലാതെയായി പോയ പോയന്റുകളുണ്ട് ഇനി നമുക്ക് ഓരോ ക്രിട്ടിക്കൽ പോയന്റുകളിലും അത് ലോക്കൽ മിനിമത്തിന്റെയോ ലോക്കൽ മാക്സിമത്തിന്റെയൊ പോയന്റ് ആണോ എന്നും അല്ലെങ്കിൽ സാഡിൽ പോയന്റ് ആണോ എന്നും നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള മതിയായ വ്യവസ്ഥകളെ ഉപയോഗിക്കേണ്ടതുണ്ട് ഇനി അടുത്തതിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ fx ഉണ്ട് ഇനി എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള തുടർ അന്വേഷണത്തിന് വേണ്ടി നമുക്ക് രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവുകൾ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഇത് x ന് അനുസൃതമായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ പദം ലഭിക്കും കാരണം ഇവിടെ ഇപ്പോൾ കുറെ പദങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരെണ്ണത്തിന് മാത്രമായി ഞാൻ കാണിക്കാം അടുത്തത് നമ്മൾ നേരിട്ട് എഴുതുന്നതാണ് അപ്പോൾ ഇവിടെ വീണ്ടും പ്രൊഡക്ട് റൂൾ പ്രായോഗികമാണ് ഇവിടെ നമ്മൾ 2 e എന്നത് ചെയ്യാം ഇതിനെ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയും പിന്നീട് x ന് അനുസൃതമായിട്ടുള്ള രണ്ടാമത്തെതിന്റെ ഡെറിവേറ്റീവും അപ്പോൾ അത് 4 ആയിരിക്കും പിന്നെ ഇവിടെ ഒരു മൈനസും പിന്നെ 12 x2 ഉം പിന്നെ y2 ഉം ഇത് x ന് അനുസൃതമായിരിക്കും പിന്നെ പ്ലസ് ഇത് 2 തവണയും വീണ്ടും ഈ പദം 4 x 4 x3 എന്നും 2 എന്നുമായി തുടരും ഇനി നമ്മൾ ഈ ആദ്യത്തെ പദം ഡിഫറെൻഷിയേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ e ഉം പിന്നെ ഈ 2 x പദവും നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ x2 4 y2 എന്നായിരിക്കും അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ 2 e പൊതുവായിട്ടെടുക്കും ഇവിടെ നിന്ന് നമുക്ക് 4 12 x2 y2 ഉം ഇവിടെ 2x പൊതുവായിട്ടെടുക്കുകയും ചെയ്താൽ നമുക്ക് ഈ 2 2 ലഭിക്കും അപ്പോൾ ഇത് ഇവിടെ 4 ആണ് അതിനാൽ 8x പിന്നെ നമുക്ക് ഇവിടെ 8x3 ലഭിക്കുകയും കൂടെ 2 x2 y2 എന്നത് ആദ്യമേ പരിഗണിച്ചതാണ് അപ്പോൾ ഇവിടെ x ഉണ്ടായിരുന്നു അതിനാൽ നമുക്ക് x2 പദം ലഭിക്കും ഇത് x ആയതുകൊണ്ട് ഇവിടെ x4 ഉണ്ടാവും ഈ x ഇതിനെ x2y4 എന്നാക്കും അപ്പോൾ ഇതാണ് ഇവിടത്തെ പദം ഇവിടെ ഒരു 4 ഉണ്ട് പിന്നെ ഒരു a x2 പദമുണ്ട് അപ്പോൾ അത് 8 x2 ആവും ഇനി ഇത് 12x2 അത് 20x2 ആകും പിന്നെ നമുക്ക് ഇവിടെ x4 ഉണ്ട് അപ്പോൾ 8x4 നമുക്ക് ഇവിടെ y2 ഉണ്ട് പിന്നെ ഈ 2 e കൂടെ ഈ 2 x2 y2 പദവും ഉണ്ട് അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് x ന് അനുസൃതമായിട്ടുള്ള രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് അതിവിടെ ഇതിനകം എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റ് ഡെറിവേറ്റീവുകളും കണക്ക് കൂട്ടേണ്ടതുണ്ട് ഈ മിശ്ര വർഗ ഡെറിവേറ്റീവ് x നും y ക്കും അനുസൃതമായിട്ടുണ്ട് അതുപോലെ y2 ന് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവും അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പത്തെ സ്ലൈഡിൽ നിന്നും fy ഉണ്ട് ഇനി ഇതിനെ നമുക്ക് x ന് അനുസൃതമായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത ആശയം വച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ പദം ലഭിക്കും ഇനി ഇത് നമുക്ക് ഒരിക്കൽ കൂടെ y ക്ക് അനുസൃതമായി രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവായ fyy ലഭിക്കുന്നതിനുവേണ്ടി ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് fy ആണ് ഇതിനെ നമ്മൾ ഈ t ലഭിക്കാൻ വേണ്ടി ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോണെൻഷ്യൽ ഫംഗ്ഷനോട് കൂടെ ഈ പദവും ഈ 1 20y2 16x2 128 x2 y232y4 പ്രയോഗവും ലഭിക്കും ഇപ്പോൾ നമുക്ക് 3 സമവാക്യങ്ങൾ ഉണ്ട് ഇത് മൂന്ന് പ്രയോഗങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ r നും പിന്നെ ഇവിടെ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് s ഉം മിക്സഡ് ഡെറിവേറ്റീവും പിന്നെ r ന് അനുസൃതമായിട്ടുള്ള രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവും ഉണ്ട് അപ്പോൾ ഈ ഡെറിവേറ്റീവുകളുടെ സഹായത്തോടെ ഈ പോയന്റ് മാക്സിമത്തിന്റെ പോയന്റാണോ മിനിമത്തിന്റെ പോയന്റ് ആണോ അതോ ഒരു സാഡിൽ പോയന്റ് ആണോ എന്നും തുടർന്ന് പരിശോധിക്കുന്നതാണ് rfxx xy2 e 4 20x28x4 y22 x2 y2 sfxy xy4 xy e 1716x24y2 tfyy xy2 e 1 20y2 16x2 128 x2 y232y4 അപ്പോൾ നമ്മൾ പറഞ്ഞതു പോലെ ഇവിടെ rst എന്നീ മൂന്ന് പ്രയോഗങ്ങൾ ഉണ്ട് ഇനി നമ്മൾ ഈ പോയന്റുകൾ കണ്ടെത്തും ആദ്യത്തെ പോയന്റ് 00 ആണെന്നുള്ളത് ഓർക്കുക അപ്പോൾ ഈ 00 പോയന്റിൽ നമ്മൾ ഈ r s t ഉം കണക്ക് കൂട്ടും x നും y ക്കും പൂജ്യം ആകുമ്പോൾ ഇവിടെ പൂജ്യമായിരിക്കും അപ്പോൾ അവിടെ 4 ആയിരിക്കും ഈ e0 ഒന്നായി മാറും അപ്പോൾ നമുക്ക് 4×28 എന്ന് കിട്ടും അപ്പോൾ r എന്നത് 8 ആണ് ഇനി ഈ 00 s ൽ ചേർക്കുകയാണെങ്കിൽ ഈ പദങ്ങൾ ഇപ്പോൾ പൂജ്യമാണ് അപ്പോൾ നമുക്ക് 17 ഉണ്ട് പക്ഷേ ഇവിടെ xy പ്രൊഡക്റ്റിൽ ഇരിപ്പുണ്ട് അപ്പോൾ s പൂജ്യമായി മാറും ഈ കേസിൽ വീണ്ടും ഇവിടെ പൂജ്യമല്ലാത്ത നമ്പർ ഉണ്ടാകും അപ്പോൾ ഈ പദങ്ങളെല്ലാം പൂജ്യമാവും ഇവിടെ നമുക്ക് 1 ഉണ്ട് അപ്പോൾ 2 1 നോട് ഗുണിച്ചാൽ ഇത് 2 ആയിരിക്കും അപ്പോൾ ഈ 00 പോയന്റിൽ r8 s0 t2 എന്നതുണ്ട് ഇത് നമ്മൾ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളിൽ നിന്നുമുള്ള ആദ്യത്തേതായിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഓരോന്നിനും നമുക്ക് അത് മിനിമം പോയന്റ് ആണോ മാക്സിമം പോയന്റാണോ സാഡിൽ പോയന്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പോയന്റിൽ നമ്മൾ ഈ എല്ലാ ഉയർന്ന വർഗ്ഗ ഡെറിവേറ്റീവുകളും കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് rt s2 കണക്ക് കൂട്ടേണ്ടതുണ്ട് r ന്റെയും t യുടെയും ഗുണനഫലം 16 ആണ് അപ്പോൾ നമുക്ക് കിട്ടിയത് 16 ആണ് അത് പോസിറ്റീവാണ് ഇനി പര്യാപ്തമായ വ്യവസ്ഥയിൽ rt s2 പോസിറ്റീവാണെങ്കിൽ അത് പോലെ r ഉം പോസിറ്റീവാണെങ്കിൽ ഈ പോയന്റ് ലോക്കൽ മിനിമത്തിന്റെ പോയന്റാണ് അപ്പോൾ ഇത് ലോക്കൽ മിനിമത്തിന്റെ പോയന്റ് ആണെന്ന് നമുക്ക് ലഭിച്ചു അപ്പോൾ 00 ഫംഗ്ഷന് ലോക്കൽ മിനിമം ഉണ്ട് ഇനി നമ്മൾ മറ്റു പോയന്റുകൾ പരിഗണിക്കും 0½ ഉം 0 ½ ഉം രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയന്റുകൾ ആയിരുന്നു ഈ പ്രയോഗങ്ങളിലെല്ലാം ഈവൻ പവറുകളിൽ y ഉള്ളതിനാൽ ഇത് നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാം കാരണം നമ്മൾ ഈ ചിഹ്നം എടുത്താലും ചിഹ്നം എടുത്താലും y പവർ ഈവൻ ഒരേ സംഖ്യ തന്നെയാവും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ രണ്ടു പോയന്റുകളും ഒരുമിച്ച് പരിഗണിക്കാം അതിനാൽ നമ്മൾ രണ്ടാമത്തേയും മൂന്നാമത്തെയും പോയന്റുകളാണ് ചർച്ച ചെയ്യുന്നത് 0±12 ഈ കേസിൽ നമുക്ക് വീണ്ടും r കണക്കു കൂട്ടണം അപ്പോൾ x പൂജ്യമാണ് r രണ്ട് തവണ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ എക്സ്പോണെൻഷ്യൽ ഫംഗ്ഷൻ x0 y2 ¼ എന്നും ഉണ്ട് അപ്പോൾ ഇവിടെ e 1 എന്നത് കിട്ടും പിന്നെ ഇവിടെ 4 ഉം മൈനസ് ഇത് പൂജ്യവുമാണ് ഇവിടെയും പൂജ്യമാണ് ഇവിടെ ഈ x ന്റെ അടുത്ത് മാത്രമേ പദം നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ¼ ഉം ഇവിടെ വീണ്ടും x എന്നത് പൂജ്യമാവും അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നതെന്നാൽ e 1 ഉം ഇവിടെ 154 ഉം ആണ് അപ്പോൾ ഇവ രണ്ടും ഇല്ലാതെയാവും അപ്പോൾ നമുക്ക് കിട്ടുന്നത് 152e അതാണ് ഈ പോയന്റിലെ r ന്റെ മൂല്യം അപ്പോൾ അത് 152e ആണ് സമാനമായി നമുക്ക് ഇനി ഈ s ഉം t യും ഈ പൂജ്യവും ±12 ഉം പകരം വെച്ചുകൊണ്ട് കണക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഈ s ൽ പകരം ചേർക്കുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റിൽ x ഉം y യും ഉള്ളതിനാൽ x പൂജ്യം ആകുമ്പോൾ മൊത്തം പദം പൂജ്യമാവുന്നതാണ് അപ്പോൾ s ഇവിടെ നേരാവണ്ണം പൂജ്യമാണ് ഇനി t കണ്ടെത്താൻ ഈ y2 ഇവിടെ പകരം ചേർക്കേണ്ടതുണ്ട് ഈ പദങ്ങളിലും x ഉള്ളതിനാൽ ഇവ ഇല്ലാതെയായി പോകും ഇവിടെ ഇനി നമുക്ക് ഈ y4 ഉണ്ട് അപ്പോൾ ഈ പദങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 4e ഉം rt s2 ഉം ലഭിക്കും ഇനി നമ്മൾ rt എന്നത് പ്രോഡക്റ്റ് ആക്കുമ്പോൾ ഇതിന്റെ t യിൽ മൈനസ് ചിഹ്നം ആയതിനാൽ നമുക്ക് 30e2 എന്ന് കിട്ടും ഇനി ഇവിടെ ഈ rt s2 നെഗറ്റീവാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പര്യാപ്തമായ വ്യവസ്ഥ അനുസരിച്ച് ഇതൊരു സാഡിൽ പോയിന്റ് ആയിരിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ പോയന്റും മൂന്നാമത്തെ പോയന്റും 012 ഉം 0 12ഉം ഇവ രണ്ടും സാഡിൽ പോയന്റുകൾ ആയിരിക്കും നമ്മുടെ പര്യാപ്തമായ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ പോയന്റുകൾ സാഡിൽ പോയന്റ് ആണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിച്ചു ഇനി അവസാനത്തേത് നാലാമത്തേതും അഞ്ചാമത്തേതും 10 യും 10 യും ആണ് ഇവ രണ്ടും നമുക്ക് വീണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യാം കാരണം x പവറിൽ ഒന്നുകിൽ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ 4 ആയിട്ടോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മൂല്യം നമ്മൾ എടുത്താലും എടുത്താലും സമാനമായി തുടരും അതിനാൽ നമ്മൾ r കണക്കുകൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് പൂജ്യത്തിൽ y പകരം ചേർക്കണം അപ്പോൾ ഈ രണ്ടു പദങ്ങളും പൂജ്യത്തിലേക്ക് പോവുകയും പിന്നെ ഇവിടെ നമുക്ക് ഈ e0 യും e1 ഉം ഉണ്ട് e 1 ഉം ഇതുപോലെ തന്നെ ആയിരിക്കും അത് ഡിനോമിനേറ്ററിലാണ് വരിക ഇനി ഇത് ലഘൂകരിച്ചതിനു ശേഷം നമുക്ക് ലഭിക്കുന്നത് 16 ആണ് അപ്പോൾ ഇവിടെ r 16e ഉം s പൂജ്യവുമാണ് കാരണം ഇവിടെ ഈ പ്രയോഗത്തിൽ y ഉണ്ട് അതിനാൽ നമുക്ക് പൂജ്യം ലഭിക്കും t ഈ പ്രയോഗത്തിൽ നിന്ന് 30e ആയിരിക്കും അപ്പോൾ വീണ്ടും ഈ rt s2 നമുക്ക് കണക്കു കൂട്ടണം അപ്പോൾ ഇവിടെ ഈ rt വീണ്ടും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ 480e2 ഇനി ഈ r ന്റെ ചിഹ്നത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ പോയന്റ് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് നിശ്ചയിക്കാം അപ്പോൾ ഈ കേസിൽ r നെഗറ്റീവാണ് മാത്രമല്ല ഓർക്കുക rt s2 പോസിറ്റീവും r നെഗറ്റീവുമാകുമ്പോൾ പോയന്റ് മാക്സിമം ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ കേസിൽ ഈ രണ്ടു പോയന്റുകളും 10യും 10യും ലോക്കൽ മാക്സിമത്തിന്റെ പോയന്റുകളാണ് ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ് അത് ഇവിടെ ഫംഗ്ഷൻ fxy y2x2yx4 എന്നതിൽ നമുക്ക് 4 ലോക്കൽ എക്സ്ട്രീമകൾ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ഈ കേസിൽ നമ്മൾ വീണ്ടും ഏക വർഗ്ഗ ഡെറിവേറ്റീവായ fx2xy4x3 എന്നത് കണക്ക് കൂട്ടും കൂടാതെ y ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവുമുണ്ട് അപ്പോൾ ഇവിടെ 2yx2 അപ്പോൾ നമുക്കിവിടെ ഭാഗിക ഡെറിവേറ്റീവുണ്ട് ഇനി സ്റ്റേഷനറി പോയന്റ് ലഭിക്കുന്നതിനായി നമ്മൾ ഈ രണ്ട് സമവാക്യങ്ങളും സോൾവ് ചെയ്യേണ്ടതുണ്ട് അതിനർത്ഥം fx0 fy0 അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് 2xy4x3 ഉം fy0 യും ഉണ്ട് ഇനി ഇത് പൂജ്യം ആക്കുകയാണെങ്കിൽ അതിനർത്ഥം 2yx20 അപ്പോൾ ഈ രണ്ട് ഇക്വഷനുകളിൽ നിന്ന് നമുക്ക് ഈ രണ്ട് സമവാക്യങ്ങൾ നിറവേറ്റുന്ന എല്ലാ പോയന്റുകളും ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തേതിൽ നിന്ന് x0 എന്നത് നിറവേറ്റുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ x0 ആകുമ്പോൾ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് y യുടെ വാല്യൂ എന്തായിരിക്കും കാരണം ഈ രണ്ട് സമവാക്യങ്ങളും ഒരുമിച്ച് നിറവേറ്റുന്ന എല്ലാ പോയന്റുകളും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ x0 എന്നത് fxx 000 ആക്കുന്നു ഇനി x പൂജ്യമാകുമ്പോൾ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നും y എന്നതും പൂജ്യമാക്കണം ഇനി നമുക്ക് ഈ രണ്ട് പദങ്ങൾ പൂജ്യം ആക്കുന്ന മറ്റു ചില സാധ്യതകളെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇവിടെ ഒന്നുകിൽ x പൂജ്യമാണ് അല്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പദം പൂജ്യമാണ് അതിനർത്ഥം ഈ 2 y4x2 എന്നത് പൂജ്യമാണ് ഇതിനോടു കൂടെ 2 yx2 പൂജ്യമാവണം വീണ്ടും ഈ 2 സമവാക്യങ്ങളിൽ നിന്ന് 2 y4 x20 എന്നതും 2 yx20 എന്നതും നിറവേറ്റുന്ന ഒരേയൊരു പോയന്റ് 00 ആണ് 00 അല്ലാതെ മറ്റൊരു പോയന്റും നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇവിടെയുള്ള സ്റ്റേഷനറി പോയന്റ് 00 ആണ് അപ്പോൾ ഈ 00 പോയന്റിൽ നമുക്ക് ഇവ ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ എന്നത് കണ്ടെത്താൻ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടി നമുക്ക് രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവുകൾ കണക്കു കൂട്ടേണ്ടതുണ്ട് അതിനാൽ fxx 00 ഇനി fxx എന്നാവും അതിനാൽ fxx വീണ്ടും x ന് അനുസൃതമായിട്ട് വരും അപ്പോൾ നമുക്കിവിടെ 2y എന്ന് ലഭിക്കും ഇവിടെ 12 x2 എന്നും ലഭിക്കും ഇനി 00 പോയന്റിൽ വീണ്ടും ഇവിടെ x പദവും y പദവും ഉണ്ട് അപ്പോൾ ഇത് പൂജ്യമാവും ഇനി ഇവിടെ fxy y ക്ക് അനുസൃതമായി കണക്ക് കൂട്ടുന്നതും ആവശ്യമായതിനാൽ ഇവിടെ നമുക്ക് 2x പദവും fyy യും നമുക്ക് പൂജ്യം എന്നായി കിട്ടും കാരണം ഇവിടെ y ക്ക് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടുന്നതാണ് ഇനി നമ്മൾ rfxx 00 എന്നത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇത് പൂജ്യമായിരിക്കും ഈ 00 പോയന്റിന്റെ സമ്മിശ്ര വർഗ്ഗ ഡെറിവേറ്റീവിലെ s എന്നതും പൂജ്യമാവും കാരണം x ഇവിടെ ഇരിപ്പുണ്ട് മാത്രമല്ല ഈ പോയന്റിൽ വീണ്ടും tfyy 002 എന്നതാണ് ഇവിടെ x പദവും y പദവുമില്ല ഇത് 2 ആണ് ഇനി നമുക്ക് rt s2 കണക്കു കൂട്ടണം അപ്പോൾ ഇത് r ഉം ഇത് t യും ആണ് അപ്പോൾ ഇത് പൂജ്യമാവും പിന്നെ s2 പൂജ്യവും അപ്പോൾ നമുക്ക് ഈ rt s2 ഉണ്ട് ഈ കേസിൽ ഈ ടെസ്റ്റ് പരാജയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഈ rt s2 അടിസ്ഥാനമാക്കി കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് ടെസ്റ്റ് അടിസ്ഥാനമാക്കി കൊണ്ടോ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല അപ്പോൾ നമുക്ക് മറ്റു ചില വഴികൾ കണ്ടെത്തേണ്ടിവരും ഈ പോയന്റ് 00 എന്താണെന്നുള്ള നിഗമനത്തിലെത്താൻ അപ്പോൾ ഈ ടെസ്റ്റ് പരാജയപ്പെടുന്നു പക്ഷേ ഈ പോയന്റ് ഒരു മിനിമം പോയന്റ് ആണോ മാക്സിമം പോയന്റ് ആണോ സാഡിൽ പോയന്റ് ആണോ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാവും ഇനി നമ്മൾ നേരിട്ട് കണക്കു കൂട്ടുകയാണെങ്കിൽ ഈ Δf ന്റെ ചിഹ്നത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഇത് ഒരു മാക്സിമത്തിന്റെ പോയന്റ് ആണോ മിനിമത്തിന്റെയാണോ എന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ ഇത് നെഗറ്റീവാണെങ്കിൽ അതിനർത്ഥം ഈ f00 അതിന്റെ ചുറ്റുവട്ടത്തുള്ള പോയന്റുകളെക്കാൾ വലുതാണ് എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസിൽ ലോക്കൽ മാക്സിമം ആണുള്ളത് ഈ Δf ഇതിന്റെ ചുറ്റുവട്ടത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയന്റ് സ്വാഭാവികമായും ലോക്കൽ മിനിമം ആയിരിക്കും ഇനി നമ്മൾ ഈ 00 പോയന്റിന്റെ ചുറ്റുവട്ടത്ത് ചിഹ്നം മാറ്റുകയാണെങ്കിൽ അത് സാഡിൽ പോയിന്റ് ആണെന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ Δf ന്റെ ചിഹ്നം രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് ടെസ്റ്റിലൂടെ പോവാതെ തന്നെ നിരീക്ഷിക്കാൻ ശ്രമിക്കും ഒരുപാട് കേസുകളിൽ ഇത് പ്രാവർത്തികമാകും പക്ഷേ ചില സമയങ്ങളിൽ ഫംഗ്ഷനിൽ നിന്ന് Δf ന്റെ ചിഹ്നം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കേസിൽ ഇത് ചിലപ്പോൾ സാധ്യമാകാം അപ്പോൾ f0h0k f000 എന്നത് ഉണ്ടാകുമ്പോൾ ഈ f0h0k എന്നതിൽ ഈ y നു പകരം k വെക്കുകയും ഇത് h2k ആണ് പിന്നെ ഇവിടുത്തെ h ഈ h നാൽ പകരം വെക്കും അപ്പോൾ ഇവിടെ നമുക്ക് h4 ഉണ്ട് അപ്പോൾ നമുക്ക് 00 പോയന്റിന്റെ ചുറ്റുവട്ടത്തിലെ Δf ന്റെ മൂല്യമുണ്ട് അതിനാൽ നമുക്ക് ഈ പദത്തെ മാറ്റി എഴുതാവുന്നതാണ് അതിന്റെ ആദ്യത്തെ പദത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ k2h22 ഉണ്ട് അപ്പോൾ ഈ ഹോൾ സ്ക്വയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് k24 ആണ് അപ്പോൾ ഇവിടെ ഒരു പദം ഉണ്ട് നമുക്കത് ചർച്ച ചെയ്യാം അപ്പോൾ ഈ k24 ഉം ഇവിടെ ഒരു h4 പദവും പിന്നെ ഇവിടെ kh2 പദവും പിന്നെ ഈ 32 k2 ഉണ്ട് അപ്പോൾ ഈ k24 ഉം പിന്നെ ഇവിടെയുള്ള k2 എന്നതും 32 k2 ആവും അപ്പോൾ നമുക്ക് ഈ രണ്ടു പദങ്ങളും കൂട്ടിയോജിപ്പിച്ച് ഈ 4 ലഭിക്കും പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട് ഇത് 34 എന്നാവും അപ്പോൾ ഇവിടെ ¾ ആണുള്ളത് 2 ന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് 4 ആണ് അപ്പോൾ ¾ ഉം ¼ ഉം ഈ k2 എന്നതിനെ ഉണ്ടാക്കും പിന്നെ ഈ h4 ഉണ്ട് അപ്പോൾ ഇത് അവിടെ 32 k2 ആവും അപ്പോൾ ഇവിടെ 34 ഇനി നമ്മൾ ഈ പദത്തിനെ അടിസ്ഥാനമാക്കി ഇതിന്റെ സ്വഭാവം കണ്ടെത്താൻ ശ്രമിക്കും അത് ഇവിടെ വ്യക്തമാണ് കാരണം h ഉം k യും പൂജ്യം അല്ലാതാവുമ്പോൾ അപ്പോൾ ഇതിലൊന്ന് പൂജ്യം ആവാൻ പറ്റും നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാവും പക്ഷേ നമുക്ക് രണ്ടും ഒരുമിച്ചു പൂജ്യമാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിലൊന്ന് പൂജ്യം അല്ലാത്തതാണെങ്കിൽ ഉദാഹരണത്തിന് k പൂജ്യമല്ലാത്തതാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവായ ഒന്ന് ലഭിക്കും ഇവിടെയും നമുക്ക് ഒരു പോസിറ്റീവായ ഒന്ന് ഒരു സ്ക്വയർ ഉണ്ടാവും ഇനി h പൂജ്യമല്ലാത്ത ഒന്നാണെങ്കിൽ ഇത് പൂജ്യമാവാൻ പറ്റും അപ്പോൾ h ഇത് വീണ്ടും പോസിറ്റീവ് പദം ആകും അപ്പോൾ h ഉം k യും ഒരേസമയം പൂജ്യം അല്ലാത്തിടത്തോളം കാലം അവ നെഗറ്റീവോ പോസിറ്റീവോ ആവാം അത് അതിനെ ബാധിക്കുന്നില്ല ഇനി ഒന്നുകിൽ h പൂജ്യം അല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ k പൂജ്യമല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ രണ്ടും പൂജ്യം അല്ലാത്തതാണെങ്കിൽ ഈ പദം പോസിറ്റീവായി തുടരും ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നമ്മൾ ചുറ്റുവട്ടത്ത് ഏത് പോയന്റ് എടുത്താലും ആ ചുറ്റുവട്ടം എത്ര ചെറുതാണെങ്കിലും ഈ Δf പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ കേസിൽ ഇത് പോസിറ്റീവാണെങ്കിൽ അതിനർത്ഥം ഇതിന്റെ ചുറ്റുവട്ടത്ത് ഫംഗ്ഷൻ കൂടുതൽ വലിയ മൂല്യങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ 00 എന്നത് ഒരു ലോക്കൽ മിനിമം പോയന്റായിരിക്കും അപ്പോൾ ഈ 00 ഒരു ലോക്കൽ മിനിമത്തിന്റെ പോയന്റാണ് അപ്പോൾ ഈ കേസിൽ ഇത് എളുപ്പമായിരുന്നു കാരണം ഈ ടെസ്റ്റ് പരാജയപ്പെടുന്നു പക്ഷേ ഇത് ഒരു പര്യാപ്തമായ വ്യവസ്ഥയായിരുന്നു അതിനാൽ നമുക്ക് ഈ ലോക്കൽ മിനിമത്തെ കുറിച്ച് പറയുന്ന പര്യാപ്തമായ വ്യവസ്ഥകൾ ഒന്നും തന്നെ ലഭിച്ചില്ല പക്ഷേ ഈ ഫംഗ്ഷൻ നേരിട്ട് ചർച്ച ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു നമ്മൾ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഏത് പോയന്റ് എടുക്കുകയാണെങ്കിലും ഈ ഫംഗ്ഷന്റെ Δf പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ ഇതൊരു ലോക്കൽ മിനിമം പോയന്റ് ആണ് അതിനാൽ ഒരു ഉദാഹരണം കൂടി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം xy 4 3x2yy2 ഇത് മുമ്പത്തെ ഉദാഹരണത്തോട് സാദൃശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ fx fy കണക്ക് കൂട്ടും പിന്നീട് സ്റ്റേഷനറി പോയന്റും എന്നിട്ട് നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിലുള്ളത് പോലെ ഈ കേസിലും 00 എന്ന ഒരു സ്റ്റേഷനറി പോയന്റെ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടെത്തും ഇനി ഈ fxx കണക്കുകൂട്ടുമ്പോൾ നമുക്ക് ഇത് പൂജ്യമെന്ന് ലഭിക്കും കാരണം x പദമോ y പദമോ ഈ fxy കണക്കുകൂട്ടുമ്പോൾ അവിടെ നിലനിൽക്കും ഇവിടെ ഈ 6x വീണ്ടും ഈ 00 പോയന്റിൽ പൂജ്യമായിരിക്കും ഇനി fyy കണക്ക് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിനെ y ക്ക് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് 2 ലഭിക്കുന്നു ഇനി മുമ്പത്തെ കേസിന് സമാനമായി നമുക്കിവിടെ rt s2 ഉണ്ട് അപ്പോൾ ഈ ടെസ്റ്റ് വീണ്ടും പരാജയപ്പെടുന്നു ഇനി നമ്മൾ മുമ്പ് ചെയ്തത് പോലെ ഒരു ആശയം ഉപയോഗിക്കും നമ്മൾ ഈ Δf കണക്കുകൂട്ടുന്നു ചുറ്റുവട്ടത്തുള്ള പോയന്റ് മൈനസ് ഈ f00 അത് കൃത്യമായി ഫംഗ്ഷൻ 4 2 kk2 എന്ന് വരും ഇനി ഈ കേസിൽ നമ്മൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഇനിയും വരുത്തും അപ്പോൾ ഈ 3 h2 k നമ്മൾ 2h2 k എന്നും h2 k എന്നുമായി എഴുതിയിട്ടുണ്ട് ഇനി ആദ്യത്തെ രണ്ട് പദങ്ങളിൽ നിന്നും 2h2 പൊതുവായിട്ടെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ h2 ഉം k യും ഇവിടെ നിന്ന് k യും ഇവിടെനിന്ന് h2 k യും ലഭിക്കും അപ്പോൾ നമുക്ക് ഇവിടെ h2 k ഗുണനം 2h2 k പ്രൊഡക്ട് ഉണ്ട് ഇനി നമ്മൾ ഈ Δɸ ചിഹ്നം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് ചർച്ച ചെയ്യും നമുക്ക് ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളിലുമായി ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയ ഒരു നിശ്ചിത ചിഹ്നം ഉണ്ടോ അതോ ചിഹ്നം മാറുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ അപ്പോൾ ആദ്യത്തെ സാധ്യതയിൽ നമ്മൾ ഈ k ഉദാഹരണത്തിന് നെഗറ്റീവായിട്ട് എടുക്കുന്നു അപ്പോൾ ഈ h എന്ത് തന്നെയാണെങ്കിലും ഈ k നെഗറ്റീവാകുമ്പോൾ ഈ പദം പോസിറ്റീവ് ആയിരിക്കും ഇവിടെ k പോസിറ്റീവ് ആകും ഇവിടെയും k പോസിറ്റീവാകും അപ്പോൾ h എന്ത് തന്നെയാണെങ്കിലും h ചിലപ്പോൾ പൂജ്യമാവാം h പൂജ്യമല്ലാത്തതാവാം പക്ഷേ k നെഗറ്റീവാകുമ്പോൾ ഇതിന്റെ ഗുണനഫലം പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് Δf ഈ സാഹചര്യത്തിൽ k നെഗറ്റീവ് ആയതിനാൽ പോസിറ്റീവ് എന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സാഹചര്യം കാണാം വാസ്തവത്തിൽ ഈ കേസിൽ Δf ന് ചുറ്റുവട്ടത്തിൽ നെഗറ്റീവുമാകാം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ h പൂജ്യമാകുന്നതിന് നമ്മൾ എത്ര അടുത്ത് പോയാലും k0 ആണ് അപ്പോൾ Δf നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ k0 എന്നാവുന്നതിൽ Δf പോസിറ്റീവ് ആയിരിക്കും എന്ന് കണ്ടു ഇനി മറ്റുള്ള സാധ്യതകളിൽ നമ്മൾ h ഉം k യും തിരഞ്ഞെടുക്കുന്നത് k h2 നേക്കാൾ വലുതും 2h2 നേക്കാൾ ചെറുതായതുമാണ് അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുന്നതിലൂടെ നാം നമ്മുടെ ചുറ്റുവട്ടത്തെ പരിമിതപ്പെടുത്തുന്നില്ല നമുക്ക് ഈ 00 പോയന്റിന്റെ അടുത്തു വരെ പോകാം ഇത് അർത്ഥമാക്കുന്നത് h0k0 പോയന്റിൽ k h2 നേക്കാൾ കൂടുതലായതും 2h2 നേക്കാൾ കുറവായതുമാണ് അപ്പോൾ ഈ വിവേചനത്തെ നിറവേറ്റുന്ന h ഉം k ഉം നമ്മൾ ചുറ്റുവട്ടത്ത് പോയന്റുകളായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ h2 k നേക്കാൾ ചെറുതാണ് അപ്പോൾ k ആണ് വലുത് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് പിന്നെ 2h2 നേക്കാൾ വലുതാണ് അപ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ് അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും ഇവിടെ ഇത് നെഗറ്റീവ് ആകും അപ്പോൾ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഈ h ഉം k യും ഈ പോയന്റുകൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ Δf നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്തെന്നാൽ ഈ 00 പോയന്റിന്റെ ചുറ്റുവട്ടത്ത് ഈ Δf പോസിറ്റീവാണെന്നും അതുപോലെ ഈ Δf നെഗറ്റീവ് ആണെന്നും തിരിച്ചറിയുന്ന കാര്യം താൽപര്യമുണർത്തുന്നതാണ് അപ്പോൾ ഇത് ഈ 00 പോയന്റിന്റെ ചുറ്റുവട്ടത്ത് അത് ചിഹ്നം മാറ്റുന്നുണ്ട് ഇതിനർത്ഥം 00 എന്നത് ഒരു സാഡിൽ പോയന്റ് ആണ് ഇവിടെ വീണ്ടും നമുക്ക് ഈ 00 പോയന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു സാഡിൽ പോയന്റ് ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് രണ്ടാം വർഗ്ഗ ടെസ്റ്റിൽ കണ്ടെത്താൻ സാധ്യമായിരുന്നില്ല പക്ഷേ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഇതൊരു സാഡിൽ പോയന്റ് ആണെന്ന് നമുക്ക് കണ്ടെത്താം ഇനി ഇവിടെ ഇത് വീണ്ടും fxy22x2y x2 y2 എന്ന ഫംഗ്ഷൻ മാക്സിമവും മിനിമവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ആണ് അത് ആദ്യത്തെ ക്വാഡ്രന്റിലെ ത്രികോണ പ്ലേറ്റിന് മേലെയായി x കൊണ്ടും x0 y0 y9 x ലൈൻ കൊണ്ടും പരിധി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിലെ ബൌണ്ടഡ് ഡൊമൈൻ കാരണം ഈ x0 y0 y9 x ഇവയാണ് ഇവിടുത്തെ അതിരുകൾ ഇവിടെ ഇത് 09 പോയന്റും ഇത് 90 പോയന്റുമാണ് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിന്റെ അകവും അതുപോലെ അതിരും പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഈ ബൌണ്ടഡ് ഡോമെയിൻ ഉള്ളത് കാരണം നമ്മൾ ഇവ പരിഗണിക്കണം കാരണം ഈ മാക്സിമവും മിനിമവും ഇതിന്റെ അതിരുകളിൽ ആണ് നിലനിൽക്കുന്നത് ഇനി ഈ അകത്തുള്ള പോയന്റുകൾ നോക്കാം ഇതിനർത്ഥം നമ്മൾ അതിരിൽനിന്ന് നീങ്ങുകയാണ് അപ്പോൾ അകത്തുള്ള പോയന്റുകളിൽ നമ്മൾ സ്റ്റേഷനറി പോയന്റിന് വേണ്ടി തിരയും മാത്രമല്ല വേർതിരിച്ച് നമ്മൾ അതിൽ എക്സ്ട്രീമയെ തിരയുകയോ കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ സ്റ്റേഷനറി പോയന്റ് fx ഉം fy ഉം 1 ഉം 1 ഉം ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാനാവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൊമൈനിലെ അല്ലെങ്കിൽ അതിരിനെ ഉൾപ്പെടുത്താതെ ഡൊമൈനിന്റെ അകത്തെ സ്റ്റേഷനറി പോയിന്റ് അപ്പോൾ നമ്മൾ ഈ പോയന്റ് പരിഗണിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഈ അകത്തുള്ള പോയന്റിൽ ലോക്കൽ എക്സ്ട്രീമ ഉണ്ടാവാം പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അബ്സല്യൂട്ട് മാക്സിമവും മിനിമവും കണ്ടെത്താനാണ് നമുക്ക് താൽപര്യം അതിനാൽ തീർച്ചയായും നമ്മൾ ഈ പോയന്റിലെ ഫംഗ്ഷൻ മൂല്യം ഇനി ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കാൻ ഒരു പോയന്റ് ആണുള്ളത് അതിർത്തി പോയന്റുകളൊന്നും ഇല്ല അപ്പോൾ ഇവിടെയുള്ള ഈ OA വരയിലൂടെ ഇവിടെ y പൂജ്യമാണ് നമുക്ക് നമ്മുടെ fx ൽ y പൂജ്യം ആക്കാം അപ്പോൾ f22x x2 എന്നാവും ഇതിൽ x ഈ 0 മുതൽ 9 വരെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഒരു ഏക വേരിയബിൾ പ്രോബ്ലമാണ് കൂടാതെ നമുക്ക് വീണ്ടും ക്രിട്ടിക്കൽ പോയന്റ് തിരയാം അത് ഈ x ന് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്താണ് ചെയ്യേണ്ടത് അത് x1 എന്ന പോയന്റിലാണ് വരുന്നത് അതൊരു ലോക്കൽ മിനിമത്തിന്റെയൊ മാക്സിമത്തിന്റെയൊ പോയന്റ് ആയിരിക്കും നമുക്ക് വാസ്തവത്തിൽ തിരിച്ചറിയലിന് വേണ്ടി പോകേണ്ടതില്ല അതിനാൽ മാക്സിമയും മിനിമയും പ്രത്യക്ഷപ്പെടാവുന്ന കുറച്ച് പോയന്റുകൾ ഉണ്ടാവാം നമുക്ക് ആ പോയന്റുകളിൽ ഫംഗ്ഷൻ വാല്യൂ ലഭിക്കും അവിടെനിന്ന് ഏതാണ് മാക്സിമം വാല്യു ഏതാണ് മിനിമം വാല്യൂ എന്നത് നമുക്ക് നിശ്ചയിക്കാം അപ്പോൾ ഇത് ഈ വൺ ഡയമെൻഷണൽ പ്രോബ്ലത്തിലുള്ള സ്റ്റേഷനറി പോയന്റാണ് അപ്പോൾ ഈ എക്സ്ട്രീമക്കുള്ള സാധ്യതയുള്ള കാൻഡിഡേറ്റുകൾ കാരണം ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതിർത്തികൾ പോയന്റുകളായ 0 യും 9 തുമാണ് അപ്പോൾ നമുക്ക് 90 പോയന്റിലും 10 പോയന്റിലും 00 പോയന്റിലും പരിഗണിക്കണം ഇത് ഈ പ്രോബ്ലത്തിലൊരു സ്റ്റേഷനറി പോയന്റായ x1ലാണ് അപ്പോൾ നമുക്ക് 3 പോയന്റുകൾ ഉണ്ട് നമുക്ക് ഈ വൺ ഡൈമെൻഷണൽ പ്രോബ്ലത്തിന്റെ അതിർത്തിയായ 00 പോയന്റുണ്ട് ഇവിടെ നമുക്ക് 90 പോയന്റ് ഉണ്ട് അതുപോലെ 10 പോയന്റുമുണ്ട് അപ്പോൾ ഇതാണ് മൂന്ന് പോയന്റുകൾ സമാനമായി ഈ OB ലൈനിൽ ഈ ലൈൻ x0 തിരയേണ്ടതുണ്ട് ഇത് നമുക്ക് fxy ഫംഗ്ഷനിൽ സെറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഇത് ഏക വേരിയബിളിന്റെ പ്രോബ്ലമാണ് നമുക്ക് സ്റ്റേഷനറി പോയന്റിനെ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ അതിർത്തികൾ നമ്മൾ മുൻപ് എടുത്തിട്ടുള്ള അതിർത്തി പോയന്റായ 00 ഉണ്ട് പിന്നെ 09ഉം ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേഷനറി പോയന്റ് 01 എന്നായി ലഭിക്കും അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്റ്റേഷനറി പോയന്റുകളുണ്ട് ഞാനുദ്ദേശിച്ചത് എക്സ്ട്രീമക്കുള്ള ഈ മൂന്ന് കാൻഡിഡേറ്റുകളാണ് സമാനമായി നമുക്ക് ഈ മൂന്നാം അതിർത്തിയായ y9 x എന്നത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇനി y9 x എന്നത് fx yക്ക് പകരം ചേർക്കുന്നതാണ് ഇവിടെ വീണ്ടും ഏക വേരിയബിളിന്റെ പ്രോബ്ലമുണ്ട് നമുക്ക് അകത്തുള്ള പോയന്റും നോക്കേണ്ടതുണ്ട് അതിനാൽ fx0 നമുക്ക് ഒരു പോയന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് 92 ആണ് അപ്പോൾ ഇതാണ് അവിടെയുള്ള പോയന്റ് പിന്നെ വ്യക്തമായും മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇതിനകം എടുത്തിട്ടുള്ള ഈ അതിർത്തി പോയന്റുകളും ഉണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് പോയന്റുകൾ ഉണ്ട് ഇതിൽ 7 പോയന്റുകളിലെ ഫംഗ്ഷൻ മാക്സിമം മൂല്യമോ മിനിമം മൂല്യമോ കൈക്കൊള്ളാം അപ്പോൾ ഇനി നമുക്ക് അകവും അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളതും പരിമിതമായതുമായ ഡൊമൈനുള്ള അതിർത്തി പോയന്റുകളും പരിഗണിക്കേണ്ടതുണ്ട് ഇനി ഇവിടെ ഈ പോയന്റുകൾ ഇതിന്റെ ഫംഗ്ഷൻ വഴി നമ്മൾ വിലയിരുത്തും കാരണം നമുക്ക് ഗ്ലോബൽ മാക്സിമവും മിനിമവും കണ്ടെത്തുകയാണ് വേണ്ടത് ഇതിലെ ഓരോ പോയന്റും ലോക്കൽ മാക്സിമത്തിനും മിനിമത്തിനും കാണേണ്ടതില്ല അതിനാൽ 11 ൽ ഫംഗ്ഷൻ fx y 4 എന്ന മൂല്യമാണ് കൈക്കൊള്ളുന്നത് അതുപോലെ 00 2ഉം എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പോയന്റുകളിൽ ഈ മൂല്യങ്ങളെല്ലാം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ 16 അത് 90 ലും 09 എന്ന പോയന്റിലും ഫംഗ്ഷൻ എടുത്ത് എല്ലാത്തിനുമിടയിലെ മിനിമം ആണ് അതുപോലെ 11 പോയന്റിലെ 4 ആണ് മാക്സിമവും അതിനാൽ ഈ 11 പോയന്റിൽ ഫംഗ്ഷൻ ഇതിന്റെ അകത്ത് മാക്സിമം എടുക്കുന്നു അതുപോലെ 90 പോയന്റിലും അല്ലെങ്കിൽ 09 പോയന്റിലും ഇത് മിനിമം എടുക്കുന്നു അതിന്റെ മൂല്യം 61 ആണ് അപ്പോൾ ഇത് ഒരു പരിധിയുള്ള ഡോമൈനിലുള്ള പ്രശ്നംആണ് മുമ്പത്തെ പ്രോബ്ലംസുകൾ ഓപ്പൺ ഡൊമൈനിൽ ഉള്ളതായിരുന്നു അവിടെ നമ്മൾ അതിർത്തികൾ കണക്കിലെടുത്തിരുന്നില്ല കാരണം ആ പ്രശ്നങ്ങളിൽ അതിർത്തികൾ ഇല്ലായിരുന്നു പക്ഷേ ഇവിടെത്തേതിൽ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് കാരണം അവിടെ ഒരു അതിർത്തിയുണ്ടെങ്കിൽ ആ ഡോമെയിൻ ക്ലോസ്ഡ് ആണ് ഇനി നമുക്ക് അതിർത്തികളിലും നോക്കേണ്ടതുണ്ട് കാരണം മാക്സിമവും മിനിമവും അതിർത്തികളിലും ഉണ്ടാകുന്നതാണ് ഇവിടത്തെ കേസിലുള്ളതുപോലെ ഇവിടെ മിനിമം 90ലോ 09ലോ ആണ് അപ്പോൾ അവസാനമായി മാക്സിമവും മിനിമവും ഡൊമൈനിലെ അതിർത്തി പോയന്റുകളിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഒന്ന് രണ്ടാമത്തേത് മാക്സിമത്തിന്റെയും മിനിമത്തിന്റെയും സാധ്യതാ കാൻഡിഡേറ്റുകൾ കണ്ടെത്താൻ ക്രിട്ടിക്കൽ പോയന്റുകൾ നോക്കണം ഇതെല്ലാമാണ് റഫറൻസുകൾ